നമസ്കാരം അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്കു സ്വാഗതം ശീർഷകം പറയുന്നതുപോലെ ഈ പാഠ്യക്രമം സർക്യൂട്ടുകളെക്കുറിച്ചാണ് അതിനാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സർക്യൂട്ടുകളെക്കുറിച്ച് മനസിലാക്കുക എന്നതാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ എന്നത് വൈദ്യുത ഘടകങ്ങളുടെ പരസ്പര ബന്ധമാണെന്ന് ഞാൻ പറയുന്നു ഇപ്പോൾ ഇത് വളരെയധികം വിശദീകരിക്കാത്തതിനാൽ നമ്മൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കും പക്ഷേ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ ഇവിടെ വൈദ്യുതധാരകളും വോൾട്ടേജുകളും ഉണ്ട് അവ അടിസ്ഥാനപരമായി ചാർജുകളുടെയും ഫീൽഡുകളുടെയും പ്രാതിനിധ്യങ്ങളാണ് അതായതു ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ചാർജുകൾ ചില വഴികളിലൂടെ നീങ്ങുകയും അവ ഉപയോഗപ്രദമായ ചില പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ മെക്കാനിക്കൽ ഉപകാരണങ്ങളിലെ പോലെ ചലിക്കുന്ന ഭാഗങ്ങളൊന്നും നിങ്ങൾ കാണുകയില്ല എല്ലാ പ്രവർത്തനങ്ങളും വയറുകളിലും ഘടകങ്ങളിലും ചാർജുകളുടെ രൂപത്തിലും ചില മൂല്യങ്ങൾ കൈക്കൊള്ളുന്ന ഫീൽഡുകളിലും ആയി സംഭവിക്കുന്നു അതായതു മെക്കാനിക്കൽ ഉപകാരണങ്ങളെക്കാൾ കൂടുതൽ അബ്സ്ട്രാക്ട് ആണ് അതിനാൽ ഈ കാരണത്താൽ ചാർജ് ഫീൽഡ് വോൾട്ടേജ് കറണ്ട് തുടങ്ങിയ അബ്സ്ട്രാക്ട് അളവുകൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അബ്സ്ട്രാക്ട് എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവ യാഥാർത്ഥ്യമല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അത് നേരിട്ട് കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല എന്നാണ് ഒരു മെക്കാനിക്കൽ ഉപകരണത്തിൽ അവയുടെ ഭാഗങ്ങൾ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈദ്യുതകാന്തികതയുടെ ചില അടിസ്ഥാനകാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അടിസ്ഥാനപരമായി വൈദ്യുതകാന്തിക മണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളാണെന്നും നിങ്ങൾക്കറിയാം മാക്സ്വെൽ നമ്മുക്ക് നൽകിയ നാല് സമവാക്യങ്ങൾ വൈദ്യുത മണ്ഡലം കാന്തിക മണ്ഡലം ചാർജ് വിതരണം എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വിവരിക്കുന്നു ചാർജുകളും ഫീൽഡുകളും ഉപയോഗിച്ച് ഏതെങ്കിലും കണക്കുകൂട്ടലുകൾ നടത്തുന്നത് വളരെ സങ്കീർണ്ണമാണെന്ന് നിങ്ങൾക്ക് അനുഭവമുണ്ടായിരിക്കാം വളരെ സങ്കീർണ്ണമായ ഒരു സർക്യൂട്ടിനായി ഇപ്പോൾ നമ്മുക്ക് അത് ചെയ്യാൻ കഴിയില്ല അതിനാൽ നമ്മൾ ചാർജുകളെയും ഫീൽഡുകളെയും നേരിട്ട് കൈകാര്യം ചെയ്യില്ല മറിച്ച് ചാർജുകളും ഫീൽഡുകളും ഫലപ്രദമായി അർത്ഥമാക്കുന്ന മറ്റ് തുല്യമായ പ്രാതിനിധ്യങ്ങൾ കൈകാര്യം ചെയ്യും അതിനാൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ സംഭവിക്കുന്നത് ചാർജുകൾ ചലിക്കുന്നത് വൈദ്യുത മണ്ഡലം അല്ലെങ്കിൽ കാന്തികവലയം ആകാവുന്ന ഫീൽഡുകളോട് ഉള്ള പ്രതികരണത്തിന്റെ ഫലമായാണ് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചാർജുകളോ ഫീൽഡുകളോ നേരിട്ട് കണക്കാക്കില്ല ചാർജുകളെയും ഇലക്ട്രിക് ഫീൽഡുകളെയും ഏതെങ്കിലും വിധത്തിൽ ഫലപ്രദമായി പ്രതിനിധീകരിക്കുന്ന വൈദ്യുതധാരകളും വോൾട്ടേജുകളും കൈകാര്യം ചെയ്യുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് കാന്തികവലയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം അതിനാൽ നമ്മൾ വൈദ്യുതധാരകളും വോൾട്ടേജുകളും കൈകാര്യം ചെയ്യും ഇപ്പോൾ സാധാരണയായി സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചാർജ് വിതരണം തന്നിരിക്കാം അതായത് അടിസ്ഥാനപരമായി ചാർജിന്റെ സ്പേഷ്യൽ വിതരണം അതിൽ നിന്ന് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഉള്ള ഫീൽഡുകൾ കണക്കാക്കേണ്ടതുമാണ് ഇതിൽ സാധാരണയായി സങ്കീർണ്ണമായ ബീജഗണിതം ഉൾപ്പെടുന്നു ചില സാഹചര്യങ്ങളിൽ എന്തിന്റെയും സ്പേഷ്യൽ വിതരണത്തെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുമെന്ന് നമ്മുക് കാണാൻ സാധിക്കും നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അത് കാണും കൂടാതെ ഏതെങ്കിലും ഘടകങ്ങളുടെ സ്പേഷ്യൽ വിപുലീകരണത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല കാരണം നിങ്ങൾ ടെർമിനൽ സവിശേഷതകൾ മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ